നമ്മൾ അസൈൻമെന്റ് നമ്പർ 2 പരിഹരിക്കുന്നു ഈ ഭാഗത്ത് ഞാൻ വെക്റ്റർ കാൽക്കുലസും ഇലക്ട്രോസ്റ്റാറ്റിക് പോട്ടെൻഷ്യൽ കണക്കുകൂട്ടലും സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു ഈ അസൈന്മെന്റിന്റെ പ്രശ്നം നമ്പർ 5 വെക്റ്റർ ഫീൽഡിന്റെ ഉപരിതല സമഗ്രത V x y z എന്നിവ കണക്കാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് x സ്ക്വയർ i x y z j പ്ലസ് y സ്ക്വയർ z k എന്നിവയ്ക്ക് തുല്യമാണ് ഒരു യൂണിറ്റ് ഗോളത്തിന് മുകളിലുള്ള ഉപരിതല ഇന്റഗ്രൽ വി ഡോട്ട് ഡി ആണെന്ന് നിങ്ങൾ കണക്കാക്കണം അതിനർത്ഥം ഈ ഗോളത്തിന് ഉത്ഭവസ്ഥാനത്ത് 1 ആരം ഉണ്ട് മാത്രമല്ല നമ്മൾ വ്യതിചലന പ്രമേയവും ഗോളീയ ധ്രുവ കോഡിനേറ്റുകളും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു Vxyzx2ixyzjy2zk അതിനാൽ ദിവേര്ജന്സ് തേർഎത്തിലൂടെ ഈ v dot ds v യുടെ ദിവേര്ജന്സ് ഗോളത്തിന്റെ വോളിയം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഇപ്പോൾ v യുടെ വ്യതിചലനം കണക്കാക്കുന്നത് എളുപ്പമാണ് ഇത് നോക്കൂ ഞാൻ x ഘടകത്തിന്റെ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കും അത് എനിക്ക് 2 x പ്ലസ് ഭാഗിക ഡെറിവേറ്റീവ് y ഘടകവുമായി നൽകുന്നു ഇത് എനിക്ക് x ഉം z ഘടകത്തിന്റെ ഭാഗിക ഡെറിവേറ്റീവ് നൽകുന്നു z ഇത് എനിക്ക് y സ്ക്വാർ തവണ d v നൽകുന്നു ഗോളാകൃതിയിലുള്ള കോർഡിനേറ്റിലെ ഡി വി മറ്റൊന്നുമല്ല r സ്ക്വയർ ഡി r ഡി കോസൈൻ തീറ്റ ഡി phi ഇന്റഗ്രൽ പരിധികൾ ഡി r phi സ്ക്വയർ ഡ്രോഡ് കോസൈൻ അല്ലാതെ മറ്റൊന്നുമല്ല ഇന്റഗ്രൽ പരിധികൾ ഡി ഫൈ 0 മുതൽ 2 പൈ വരെ കോസൈൻ തീറ്റ മൈനസ് 1 മുതൽ 1 വരെയും r 0 മുതൽ 1 വരെയുമാണ് കാരണം നമ്മൾ വോളിയം ഇന്റഗ്രൽ ഓവർ യൂണിറ്റ് ഗോളം ചെയ്യുന്നു ഇപ്പോൾ xy z എന്നിവ ഈ ഗോളീയ ധ്രുവീയ കോർഡിനേറ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാൻ പോകുന്നു അതിനാൽ ഇത് 2 r സൈൻ തീറ്റ കോസൈൻ phi ഇന്റഗ്രേറ്റ് ചെയ്യുന്നു r സ്ക്വയർ drd cosine theta d phi യും രണ്ടാമത്തെ ടേമും സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് സംഭവിക്കാൻ പോകുന്നു x ഇത് r സൈൻ തീറ്റ കോസൈൻ phi z ഇത് തീറ്റയുടെ r കോസൈൻ തീറ്റ ആണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു r സ്ക്വയർ d r d കോസൈൻ തീറ്റ d phi യും അന്തിമപദവും സംയോജിപ്പിക്കാൻ പോകുന്നു ഇത് y സ്ക്വയർ അത് r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ phi r സ്ക്വയർ d r d കോസൈൻ തീറ്റ d phi ഇപ്പോൾ ആദ്യത്തേതും രണ്ടാമത്തേതുമായ നമ്പറാണ് ആദ്യത്തേത് ഞാൻ ഇപ്പോൾ ഇവിടെ വൃത്തത്തിൽ കാണിക്കുന്നു രണ്ടാമത്തെതും ഞാൻ പച്ച വൃത്തത്തിൽ കാണിക്കുന്നു രണ്ടിനും കോസൈൻ ഫൈ ഉണ്ട് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു കോസൈൻ phi ഓവർ d phi 0 മുതൽ 2 പൈ വരെ അതിനാൽ കോസൈൻ phi d phi 0 മുതൽ 2 പൈ ഞാൻ ഇടതുവശത്ത് എഴുതുന്നത് എനിക്ക് 0 നൽകുന്നു അതിനാൽ ഈ രണ്ട് പദങ്ങളും 0 സംഭാവന ചെയ്യുന്നു V VdV2xxzy2r2drdcosθdϕ2r sinθcosϕr2drdcosθdϕrsinθcosϕrcosθr2drdcosθdϕr2 r2drdcosθdϕr2 r2drdcosθdϕ since 02πcos ϕdϕ0 മൂന്നാമത്തെ പദം അവശേഷിക്കുന്നു അത് തുല്യമാണ് ഇന്റഗ്രേഷൻ r റൈസ് ടു 4 d r 0 മുതൽ 1 വരെ ഇന്റഗ്രേഷൻ സൈൻ സ്ക്വാർ തീറ്റ d കോസൈൻ തീറ്റ മൈനസ് 1 മുതൽ 1 വരെ ഇന്റഗ്രേഷൻ സൈൻ സ്ക്വാർ phi d phi 0 മുതൽ 2 pi വരെഇത് എനിക്ക് അഞ്ചിൽ ഒന്ന് തരുന്നു ഒന്നാമത്തെ പദം എനിക്ക് അഞ്ചിൽ തരുന്നു സൈൻ സ്ക്വാർ തീറ്റ മൈനസ് 1 മുതൽ 1 വരെ മറ്റൊന്നുമല്ല പക്ഷെ മൈനസ് 1 കോസൈൻ സ്ക്വാർ തീറ്റ x സ്ക്വാർ dx പോലെയാണ് ഇവിടെ x കോസൈൻ തീറ്റ ടൈംസ് 0 മുതൽ 2 pi വരെ 1 മൈനസ് കോസൈൻ 2 pi ഓവർ 2 d phi ആണ് dS01r4dr 11θdcos θ02πϕdϕ15 111 X2dX02π1 2dϕ1543×π4π15 ഇത് എനിക്ക് അഞ്ചിൽ ഒന്ന് തവണ 2 മൈനസ് മൂന്നിൽ രണ്ട് ഇത് നാലിൽ മൂന്ന് തവണ പൈ നൽകുന്നു അതിനാൽ ഉത്തരം 4 pi ഓവർ 15 ആയി മാറുന്നു ഇത് പ്രശ്നo നമ്പർ 5 നുള്ള ഉത്തരമാണ് dS01r4dr 11θdcos θ02πϕdϕ15 111 X2dX02π1 2dϕ1543×π4π15 പ്രശ്നം നമ്പർ 6 എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം പ്രശ്നം നമ്പർ 6 പറയുന്നു ഒരു വെക്റ്റർ ഫീൽഡിന് V x y z എന്നിവ x ദിശയിൽ x സ്ക്വാർ y പ്ലസ് j ദിശയിൽ x മൈനസ് y പ്ലസ് k ദിശയിൽ c x പ്ലസ് y തുല്യമാണ് ഇവിടെ c ഒരു സ്ഥിരാങ്കമാണ് ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ വി ഡോട്ട് ഡി എൽ കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മൾ വ്യക്തമാക്കുന്ന കർവ് ഒരു സ്ക്വാർ ആണ് അല്പം വ്യത്യസ്തമായ നിറത്തിൽ ഇത് കാണിക്കാം അതിനാൽ ഇത് x y അക്ഷങ്ങളിൽ വശങ്ങളുള്ള ഒരു സ്ക്വാർ ആണ് ഇതിലെ എതിർ ഘടികാരദിശയിലും നമ്മൾ സഞ്ചരിക്കുന്നു സ്ക്വാർ ന്റെ വശങ്ങൾ a ഒപ്പം സ്റ്റോക്സിന്റെ സിദ്ധാന്തം Stokes' Theorem ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു Vxyzx2yijCxyk അതിനാൽ സ്റ്റോക്സ് സിദ്ധാന്തം എന്താണ് പറയുന്നത് v ഡോട്ട് d l അതേ ഉപരിതല സർഫേസ് ഇന്റഗ്രൽ കർൾ v ഡോട്ട് d s അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ x y ഉപരിതലത്തിനായുള്ള d s ഞാൻ വലത് കൈ കൺവെൻഷനിലൂടെ എതിർ ഘടികാരദിശയിൽ സഞ്ചരിക്കുന്നതിനാൽ k ദിശയിൽ വരുന്നു അതിനാൽ ഈ കർൾ വരിയിൽ എനിക്ക് z ഘടകം മാത്രമേ എടുക്കാവൂ അതിനാൽ എനിക്ക് ഇത് എഴുതാൻ കഴിയും അതിനാൽ v ന്റെ കർൾ z ഘടകo തവണ d x d y അതായത് ഇന്റഗ്രൽ ഇത് ഒരു സ്കെയിലർ ആണെന്ന് ശ്രദ്ധിക്കുക V dSzdxdy ഇതിന്റെ Z ഘടകം d v y ഓവർ d x മൈനസ് d v x ഓവർ d y d x d y എന്ന് എഴുതാം ഇവിടെ d x d y ഈ സ്ക്വയറിനു മുകളിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഇപ്പോൾ x സ്ക്വാർ y i പ്ലസ് x മൈനസ് y j പ്ലസ് c x പ്ലസ് y k ന് തുല്യമായ വെക്റ്റർ v നൽകിയാൽ നമ്മൾക്ക് ഇന്റഗ്രൽ v ഡോട്ട് dl തുല്യമാണ് ഞാൻ ഇപ്പോൾ ഈ പദം വിലയിരുത്തും നമ്മൾ ഇട്ട അവസാന പദം ഇന്റഗ്രൽ dx ന് തുല്യമാണ് 0 മുതൽ a വരെ വ്യത്യാസപ്പെടുന്നു y 0 മുതൽ a വരെ വ്യത്യാസപ്പെടുന്നു d v y ഓവർ d x 1 ആയിരിക്കും മൈനസ് d v x ഓവർ d y x സ്ക്വയർ d y ആയിരിക്കും dlVy∂x Vx∂ydxdy ഇന്റഗ്രാൻഡ് x നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് 1 മൈനസ് x സ്ക്വയേർഡ് d x എനിക്ക് ഒരു മൈനസ് ക്യൂബ്ഡ് ഓവർ 3 നൽകാൻ പോകുന്നു അതിനാൽ ഉത്തരം ഒരു സ്ക്വയർ 1 മൈനസ് a സ്ക്വയർ ഓവർ 3 dl0adx0ady 1 x2a2a a23 അടുത്ത ചോദ്യo നമ്പർ 7 ചോദ്യo നമ്പർ 7 പറയുന്നത് ഒരു വെക്റ്റർ ഫീൽഡ് F നൽകുന്നത് i ദിശയിൽ 2 xyz പ്ലസ് j ദിശയിൽ x സ്ക്വയർ z പ്ലസ് k ദിശയിൽ x സ്ക്വയർ y നും തുല്യമാണ് നമ്മൾ പോട്ടെൻഷ്യൽ V x y z കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിർവചനം അനുസരിച്ച് എനിക്ക് പാർഷൽ v x മായി ബന്ധപെട്ടു അത് 2 x y z ആണ് അതുപോലെ പാർഷൽ v y മായി ബന്ധപെട്ടു F y x സ്ക്വയർ z ഉം ആയിരിക്കും പാർഷൽ v z മായി ബന്ധപെട്ടു F z അത് x സ്ക്വയർ y ഉം ആയിരിക്കും F2xyzix2zjx2yk ∂V∂xFx2xyz ∂V∂yFyx2z ∂V∂z Fzx2y നമ്മൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ എഴുതാം x സ്ക്വയർ y z ന് തുല്യമായിരിക്കണം മൈനസ് ചിഹ്നവും ഒപ്പം ചില സ്ഥിരാങ്കവും ഉപയോഗിച്ച് കാരണം പോട്ടെൻഷ്യൽ എല്ലായ്പ്പോഴും ഒരു സ്ഥിരാങ്കം വരെ നിർവചിക്കപ്പെടുന്നു പക്ഷേ ഇത് കൂടുതൽ ചിട്ടയോടെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഭാവിയിൽ നിങ്ങൾ അത്തരം പ്രശ്നം നേരിടുമ്പോൾ നിങ്ങൾക്ക് ഇത് ചിട്ടയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ പാർഷൽ v ഓവർ പാർഷൽ x എന്നത് മൈനസ് 2 xyz ന് തുല്യമാണെന്നും x മായി ഇത് x മായി ഇന്റഗ്രേറ്റ് ചെയ്താൽ v x y z നേടാൻ പോകുന്നത് മൈനസ് x സ്ക്വയർ y z പ്ലസിന് തുല്യമാണ് ഇത് ഒരു ഫംഗ്ഷൻ y z എന്നിവ മാത്രം കാരണം ഈ മുഴുവൻ പ്രവർത്തനത്തെയും x മായി ഞാൻ ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ ആദ്യ പദം എനിക്ക് ശരിയായ ഉത്തരം മൈനസ് 2 x y z നൽകുന്നു ഒപ്പം F ഒരു y z ന്റെ ഫങ്ക്ഷന് ആണ് x യുമായി ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ പൂജ്യം മാത്രം നൽകുന്നു ∂V∂xFx 2xyz Vxyz x2yzf അതിനാൽ V x y z ന്റെ സാധ്യമായ രൂപം മൈനസ് x സ്ക്വയർ y z പ്ലസ് y z എന്നിവയുടെ ഫങ്ക്ഷന് ആണ് ഇപ്പോൾ പാർഷൽ v ഓവർ പാർഷൽ y മൈനസ് x സ്ക്വാർ z പ്ലസ് മൈനസ് d f ഓവർ d y ആണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് മൈനസ് x സ്ക്വയേർഡ് z ന് തുല്യമാണെന്ന് ഞാൻ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ഇത് പ്ലസ് ആയിരിക്കണം dv ബൈ dy മൈനസ് x സ്ക്വയർ z ആയി ഇതിനകം നൽകിയിട്ടുണ്ട് ഞാൻ ഈ നിബന്ധനകൾ റദ്ദാക്കുകയും എനിക്ക് d f d y 0 ന് തുല്യമാവുകയും ചെയ്യുന്നു ഇതിനർത്ഥം F എന്നത് z ന്റെ മാത്രം ഫങ്ക്ഷന് ആണ് Vxyz x2yzfyz ∂V∂y x2z ∂f∂y x2z ∂f∂y0f≡f അതിനാൽ ഇപ്പോൾ നമുക്ക് V x y z എന്നതിലേക്ക് മാത്രമാണുള്ളത് അതിനാൽ മൈനസ് x സ്ക്വയർ y z പ്ലസ് z ന്റെ ഒരു ഫംഗ്ഷനും തുല്യമായിരിക്കണം ഇപ്പോൾ പാർഷൽ v ഓവർ പാർഷൽ z എടുക്കാം ഇത് എനിക്ക് മൈനസ് x സ്ക്വയർ y പ്ലസ് d f d z നൽകുന്നു പക്ഷേ ഇതും തന്നിരിക്കുന്ന ഫോഴ്സ് ഫീൽഡിൽ നിന്നുള്ളതാണ് മൈനസ് x സ്ക്വയർ y ന് തുല്യമാണ് വീണ്ടും ഞാൻ നിബന്ധനകൾ റദ്ദാക്കിയാൽ എനിക്ക് d f d z 0 ന് തുല്യമാണ് അത് F ഒരു സ്ഥിരാങ്കം എന്ന് മാത്രമേ അർത്ഥമാക്കൂ അതിനാൽ എനിക്ക് എന്റെ ഉത്തരം ഉണ്ട് അത് V x y z എന്നത് മൈനസ് x സ്ക്വയർ y z ന് തുല്യമാണ് കൂടാതെ ഒരു സ്ഥിരാങ്കവും Vxyz x2yzf ∂V∂z x2y∂f∂z x2y dfdz0fconstant Vxyz x2yzconstant ഏതൊരു ഫോഴ്സ് ഫീൽഡും നൽകിയാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്റഗ്രേഷൻ നടത്താം ആദ്യം x ഘടകം തുടർന്ന് y ഘടകം z ഘടകം എന്നിവ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു സ്ഥിരാങ്കത്തിനു പകരം നിങ്ങൾ മറ്റ് വേരിയബിളിന്റെ ഫംഗ്ഷനുകൾ ഇടുന്നു x y z യുമായി ബന്ധപ്പെട്ട് ഡെറിവേറ്റീവുകൾ എനിക്ക് പൂജ്യം നൽകുന്നു അടുത്തതായി നമുക്ക് പ്രശ്നo നമ്പർ 8 ചെയ്യാം അത് ഒരു പോട്ടെൻഷ്യൽ ഫംഗ്ഷനായി പറയുന്നു നമ്മൾ ഒരു പോട്ടെൻഷ്യൽ ഫംഗ്ഷൻ നൽകി V x y z എന്നത് z മൈനസ് 2 x സ്ക്വയർ മൈനസ് 3 y സ്ക്വയറിന് തുല്യമാണ് x ലൂടെ കടന്നുപോകുന്ന സ്ഥിരമായ പോട്ടെൻഷ്യൽ ഉപരിതലം തുല്യമാണ് 1 y തുല്യമാണ് 2 z തുല്യമാണ് 1 എന്നിവ വിശദീകരിക്കും ഇപ്പോൾ പോട്ടെൻഷ്യൽ ഉപരിതലം ഈ 3 പോയിന്റുകളിലൂടെ കടന്നുപോകുകയാണെങ്കിൽ അതിനർത്ഥം ആ ഘട്ടത്തിലെ പോട്ടെൻഷ്യൽ മൂല്യം 1 മൈനസ് 2 മൈനസ് 3 മടങ്ങ് y സ്ക്വയറിന് തുല്യമായിരിക്കും അത് 12 ആണ് ഇത് മൈനസ് 13 ആയി മാറുന്നു അതിനാൽ ഉപരിതലത്തെ z മൈനസ് 2 x സ്ക്വയർ മൈനസ് 3 y സ്ക്വയർ മൈനസ് 13 അല്ലെങ്കിൽ 2 എക്സ് സ്ക്വയറിന് തുല്യമാണ് കൂടാതെ 3 y സ്ക്വയർ മൈനസ് z 13 ന് തുല്യമാണ് അതാണ് ഉത്തരം Vxyzz 2x2 3y2 V1211 2 12 13 2x23y2 z13 അടുത്തതായി നമുക്ക് ചോദ്യo നമ്പർ 9 ചെയ്യാം ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് വക്രത്തിന്റെ യൂണിറ്റ് വെക്റ്റർ നിർവചിക്കുന്നു നമ്മൾ ഒരു വക്രം 4 y സ്ക്വയർ പ്ലസ് 9 നിർവചിക്കുന്നു ഇത് 4 x സ്ക്വയർ പ്ലസ് 9 y സ്ക്വയർ 36 ന് തുല്യമാണ് 3 ബൈ 2 റൂട്ട് 3 എന്നിവയിലൂടെ കടന്നുപോകുന്നു ഈ വക്രത്തിന് സാധാരണ യൂണിറ്റ് വെക്റ്റർ എന്തായിരിക്കും ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു 4x29y236 ഗ്രേഡിയന്റ് ഓപ്പറേറ്ററിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന് ഓർക്കുക x y യുടെ ഒരു ഫംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ എനിക്ക് സ്ഥിരമായ സാധ്യതയുള്ള ഉപരിതലത്തിലേക്കോ കോണ്ടറിലേക്കോ ലംബമായ ഒരു വെക്റ്റർ നൽകുന്നു ഇത് നമ്മൾ തെളിയിച്ചു ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ f x y 4 x സ്ക്വയർ 9 y സ്ക്വയർ ആകാം അതിന് വ്യത്യസ്ത രൂപരേഖകൾ ഉണ്ടാകും ഇതിനെ ആശ്രയിച്ച് ഞാൻ f x y എന്നത് സ്ഥിരവും തുല്യവുമാക്കുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന പ്രത്യേക കോണ്ടൂർ f x y 36 ന് തുല്യമാണ് പക്ഷേ അത് പ്രശ്നമല്ല ഇപ്പോൾ f x y യുടെ ഗ്രേഡിയന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ തുല്യമാണ് x d ബൈ d x പ്ലസ് y d ബൈ d y പ്ലസ് z dബൈ d z f x y ന് എനിക്ക് x ദിശയിൽ 8 x ഉം y ദിശയിൽ 18 y ഉം നൽകും ഇത് കോണ്ടൂർ ൽ ലംബമായി പോകുന്നു ഇത് എവിടെയാണ് കണക്കാക്കേണ്ടത് ഈ പ്രത്യേക ഉപരിതലത്തിൽ ഇത് കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് fxy 36 ന് തുല്യമാണ് ഒപ്പം ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് x 3 ബൈ 2 y റൂട്ട് 3 നും തുല്യമാണ് അതിനാൽ ഗ്രാഡ് fxy ആ സമയത്ത് 12 x അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് 12 i പ്ലസ് 18 റൂട്ട് 3 j ആയിരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒരു യൂണിറ്റ് വെക്ടറാക്കുക fxy36 fxyx∂xy∂yz∂zfxy8xi18yj fxy|32312i183j അതിനാൽ 12 i പ്ലസ് 18 റൂട്ട് 3 j യൂണിറ്റ് വെക്റ്ററായി നൽകിയിരിക്കുന്ന ഈ വെക്റ്റർ ഇത് n കൊണ്ട് സൂചിപ്പിക്കാൻ അനുവദിക്കുക 12 i പ്ലസ് 18 റൂട്ട് 3 j വിഭജിക്കുന്നു സ്ക്വാർ റൂട്ട് 12 പ്ലസ് 18 റൂട്ട് 3 സ്ക്വാർ എന്നിങ്ങനെ 18 സ്ക്വാർ തവണ 3 ആണ് ഇത് എനിക്ക് 6 എന്ന് എഴുതാൻ കഴിയും എനിക്ക് പുറത്തെടുക്കാൻ കഴിയും അതിനാൽ 12 i പ്ലസ് 18 റൂട്ട് 3 j നെ 6 കൊണ്ട് ഹരിക്കുന്നു i പ്ലസ് 3 റൂട്ട് 3 ഓവർ 31 j ആണ് അതായത് ഉപരിതലത്തിന് ലംബമായി വരുന്ന യൂണിറ്റ് വെക്റ്റർ f x y 4 x സ്ക്വാർ 9 x സ്ക്വാർ 36 ന് തുല്യമാണ് n12i183j122182×312i183j6427231i3331j നിയന്ത്രണത്തിന്റെ താഴ്ന്ന മൂല്യത്തിൽ നിന്ന് നിയന്ത്രണത്തിന്റെ ഉയർന്ന മൂല്യത്തിലേക്ക് ഫോഴ്സിന്റെ ദിശ നൽകിയിരിക്കുന്നു അടുത്ത പ്രശ്നo നമ്പർ 10 ഒരേപോലെ ചാർജ്ജ് ചെയ്ത ഡിസ്കിന്റെ അക്ഷത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പോട്ടെൻഷ്യൽ ചോദിക്കുക അതിനാൽ നമ്മൾക്ക് ഒരേപോലെ ചാർജ്ജ് ചെയ്ത ഡിസ്ക് ഉണ്ട് നമുക്ക് x y തലം എന്ന് പറയാം അതിന് ഒരു ഉപരിതല ചാർജ് ഡെൻസിറ്റി സിഗ്മയുണ്ട് അതിൽ നിന്ന് z ഉയരത്തിലെ പോട്ടെൻഷ്യൽ കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ശ്രദ്ധിക്കുക ഈ സാഹചര്യത്തിൽ നമ്മൾ പോട്ടെൻഷ്യൽ കണക്കാക്കുമ്പോൾ ആദ്യത്തെ അസൈൻമെൻറിൽ നമ്മൾ ചെയ്തതുപോലെ വെക്റ്റർ ഘടകങ്ങളെക്കുറിച്ച് ഞാൻ ശരിക്കും വിഷമിക്കേണ്ടതില്ല അവിടെ നമ്മൾ ഫോഴ്സ് കണക്കാക്കുന്നു അതിനാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പോട്ടെൻഷ്യൽ കണക്കുകൂട്ടൽ അൽപം എളുപ്പമാകും ഇപ്പോൾ ഞാൻ ഇതിനായി എന്തുചെയ്യും r അകലെ ഒരു വളയം എടുക്കുക r അകലെ ഒരു വളയം എടുക്കുക ഇതിലെ ചാർജ് കണക്കാക്കുക ഇതിലെ ചാർജ് 2 pi rdr ആയിരിക്കും അതാണ് റിംഗ് ടൈംസ് സിഗ്മയുടെ വിസ്തീർണ്ണം ഇതാണ് ഈ റിംഗിലെ ഡിസ്കിലെ എല്ലാ ചാർജുകളും ഒരു സ്ക്വാർ റൂട്ട് z സ്ക്വാർ പ്ലസ് r സ്ക്വാർ ഒരു പോയിന്റിൽ z ൽ നിന്ന് അതിനാൽ z ലെ പോട്ടെൻഷ്യൽ v 1 ഓവർ 4 പൈ എപ്സിലോൺ 0 ആയിരിക്കും വാസ്തവത്തിൽ ഞാൻ ഇത് എഴുതണം dv ചെറിയ വളയം കാരണം വളരെ ചെറിയ പോട്ടെൻഷ്യൽ dq ആയിരിക്കും ഇത് 2 pi r d r സിഗ്മ ഓവർ സ്ക്വാർ റൂട്ട് r സ്ക്വാർ പ്ലസ് z സ്ക്വാർ മൊത്തം പോട്ടെൻഷ്യൽ ഇതിന്റെ അവിഭാജ്യമായിരിക്കും ഇതിന്റെ ഇന്റഗ്രൽ ആയിരിക്കും ഈ ഇന്റഗ്രൽ r തുല്യമാണ് 0 മുതൽ ക്യാപിറ്റൽ R വരെ dQ2πrdr dVz0R14π02πrdrσr2z2 അതിനാൽ പോട്ടെൻഷ്യൽ വി z തുല്യമാണ് 2 pi ഓവർ 4 pi എപ്സിലോൺ 0 എന്നതിന് ഒരു സിഗ്മ ഇന്റഗ്രൽ 0 മുതൽ R r d r ഓവർ a സ്ക്വാർ റൂട്ട് r സ്ക്വാർ പ്ലസ് z സ്ക്വാർ ഉണ്ട് r സ്ക്വയർ പ്ലസ് z സ്ക്വയർ y ആയി r സ്ക്വയർ പ്ലസ് z സ്ക്വയർ y സ്ക്വയറിന് തുല്യമായി എടുക്കുന്നു അതിനാൽ y d y r d r ആയി മാറുന്നു തുടർന്ന് എനിക്ക് V z എന്നത് 2 സിഗ്മയ്ക്ക് തുല്യമാണ് 4 pi എപ്സിലോൺ 0 ഇന്റഗ്രൽ മോഡുലസ് z മുതൽ R സ്ക്വയർ പ്ലസ് z വരെ സ്ക്വയർ y d y ഓവർ y y റദ്ദാക്കുന്നു ഈ 2 pi യ്ക്ക് തുല്യമായത് ഇവിടെയും റദ്ദാക്കുന്നു കൂടാതെ മുകളിലുള്ള സിഗ്മ 2 എപ്സിലോൺ 0 ന് തുല്യമായ ഉത്തരം ലഭിക്കുന്നതിന് സ്ക്വാർ റൂട്ട് R സ്ക്വയർ പ്ലസ് z സ്ക്വയർ മൈനസ് മോഡ് z Vz2πσ4π00Rrdrr2z2 Let r2z2y2ydyrdr Vz2πσ4π0|z|R2z2ydyy20R2z2 z അതിനാൽ പോട്ടെൻഷ്യൽ ഈ കണക്കുകൂട്ടൽ അല്പം എളുപ്പമാണെന്ന് നിങ്ങൾ കാണുന്നു കാരണം അളവാണ് സ്കെയിലർ എനിക്ക് സാധിക്കും ഒരേയൊരു ഘടകമാകാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ z ഘടകങ്ങൾ കണക്കാക്കണമെങ്കിൽ ഞാൻ അക്ഷത്തിൽ E z എടുത്ത് മൈനസ് d v ന് d z ന് തുല്യമാകുകയും എനിക്ക് ഉത്തരം നേടുകയും ചെയ്യും എനിക്ക് വ്യത്യസ്ത സിഗ്മകളും എടുക്കാം ഉദാഹരണത്തിന് മുമ്പത്തെ അസൈൻമെൻറിൽ നമ്മൾക്ക് ഒരു സിഗ്മ ഉണ്ടായിരുന്നു അത് r സിഗ്മ0 നെ ആശ്രയിച്ചിരിക്കുന്നു അതിനുള്ള പോട്ടെൻഷ്യൽ എനിക്ക് കണക്കാക്കാം വാസ്തവത്തിൽ ഞാൻ ഇത് നിങ്ങൾക്കായി വിടുന്നു സിഗ്മ r മൂലമുള്ള പോട്ടെൻഷ്യൽ നിങ്ങൾ കണക്കാക്കുന്നു v z അക്ഷത്തിൽ കണക്കുകൂട്ടുക തുടർന്ന് വൈദ്യുത മണ്ഡലം ലഭിക്കുന്നതിന് അതിനെ വേർതിരിക്കുക തുടർന്ന് അസൈൻമെന്റ് നമ്പർ 1 ൽ ലഭിച്ച ഉത്തരം താരതമ്യം ചെയ്യുക അവസാനമായി ഈ അസൈന്മെന്റിന്റെ അവസാന പ്രശ്നം ഒരു ചാർജ് ഷെല്ലി നായി ലഭിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് പോട്ടെൻഷ്യൽ ഏകതാനമായി ചാർജ്ജ് ചെയ്ത ആരം r ഗോളത്തിന്റെ പോട്ടെൻഷ്യൽ നേടുക അതിനാൽ നമുക്കുള്ളത് സാന്ദ്രത റോയോട് ഒരേപോലെ ചാർജ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഗോളമാണ് കൂടാതെ r ൽ നിന്നുള്ള പോട്ടെൻഷ്യൽ 0 ന് തുല്യമായി കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് എല്ലാ രീതിയിലും r വരെ അനന്തതയ്ക്ക് തുല്യമാണ് ഉപരിതല ചാർജ് ഡെൻസിറ്റി സിഗ്മ വഹിക്കുന്ന ആരം r ന്റെ ചാർജ്ജ് ഷെൽ ഉണ്ടെങ്കിൽ വി r പോട്ടെൻഷ്യൽ 1 ഓവർ 4 പൈക്ക് തുല്യമാണെന്ന് നമ്മൾ പ്രഭാഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എപ്സിലോൺ 0 4 പൈ ആർ സ്ക്വയർ സിഗ്മ ഓവർ ആർ ഇത് എനിക്ക് 4 പൈ ആർ സ്ക്വയർ സിഗ്മ ഓവർ എപ്സിലോൺ 0 r റദ്ദാക്കുന്നതിലൂടെ ഇത് ലളിതമായി എഴുതാം ക്യാപിറ്റൽ R നേക്കാൾ വലുതോ തുല്യമോ ആയ r അതിനാൽ പുറത്ത് 1 ഓവർ r ആയി പോകുന്നു അകത്ത് അത് സ്ഥിരാങ്കത്തിന് തുല്യമാവുകയും അത് ഉപരിതലത്തിലെ മൂല്യത്തിന് തുല്യമാണ് Vr14π04πR2rR20rr≥R അതിനാൽ അതിനുള്ളിൽ R സിഗ്മ ഓവർ എപ്സിലോൺ0 ആയി മാറുന്നു ഇവിടെ r R ന് സമമോ കുറവോ ആയിരിക്കും r ക്യാപിറ്റൽ R ന് തുല്യമാണെങ്കിൽ രണ്ട് ഉത്തരങ്ങളും പൊരുത്തപ്പെടുന്നു അതിനാൽ ഉപരിതല ഷെല്ലിനായി നമ്മൾക്ക് ഈ ഫലം ഉണ്ട് VrRσ0r≤R ഒരേപോലെ ചാർജ്ജ് ചെയ്ത ഗോളത്തിനുള്ള പോട്ടെൻഷ്യൽ കണ്ടെത്താൻ നമ്മൾ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഏകതാനമായി ചാർജ്ജ് ചെയ്യപ്പെടുന്ന ഗോളത്തിന് ഞാൻ ആരം ചെറിയ r ന്റെ അകത്ത് ഒരു ഷെൽ എടുക്കുന്നു ഒരു ഷെല്ലും കനവും d r ആണെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ ഇതിലെ സിഗ്മ യൂണിറ്റ് ഏരിയയ്ക്ക് ചാർജ് ചെയ്യാൻ പോകുന്നു ഷെല്ലിന്റെ വോളിയം 4 pi r സ്ക്വയർ d r ആണ് ഇതിലെ ചാർജ് a ടൈംസ് സിഗ്മയും ടൈംസ് rho ഉം ആയിരിക്കും കൂടാതെ ഷെല്ലിന്റെ വിസ്തീർണ്ണം കൊണ്ട് ഞാൻ വിഭജിച്ചാൽ ഇത് സിഗ്മയായിരിക്കും ρ4πr2 അതിനാൽ സിഗ്മ എന്നത് 4 pi r സ്ക്വയർ ആണ് റദ്ദാക്കുന്നു rho d r കൂടാതെ ഈ ഷെൽ പുറത്ത് 1 ഓവർ ആർ ആശ്രിതത്വമുള്ള ഒരു പോട്ടെൻഷ്യൽ ന് കാരണമാകുന്നു അതിനുള്ളിൽ സ്ഥിരമായിരിക്കും അതിനാൽ ഷെൽ മൂലമുള്ള പോട്ടെൻഷ്യൽ r പ്രൈമിനായിരിക്കുമെന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ r പ്രൈം കണക്കാക്കാം r സ്ക്വയർ ഇത് r സ്ക്വയർ d r ഓവർ എപ്സിലോൺ0 ന് തുല്യമായിരിക്കും r പ്രൈം r ന് തുല്യമോ കൂടുതലോ ആയിരിക്കും ഇത് തുല്യമാണ് rho d r ഓവർ എപ്സിലോൺ0 തവണ r ഇവിടെ r പ്രൈം r ന് തുല്യമോ കുറവോ ആയിരിക്കും Vrr2ρdr0rr≥r rρdr0r≤r അതിനാൽ ഉള്ളിലുള്ള സാധ്യതകൾ ഞാൻ കണ്ടെത്തി പുറത്ത് സാധ്യതകൾ കണ്ടെത്തി ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് വ്യത്യസ്ത പോയിന്റുകളിൽ മൂല്യങ്ങൾ ലഭിക്കുന്നതിന് d r മായി സംയോജിപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യട്ടെ ആദ്യം R നെക്കാൾ വലുതായി r പ്രൈമിനായി കണക്കുകൂട്ടൽ നടത്തുക അതാണ് എനിക്ക് പുറത്തുള്ള സാധ്യതകൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് പുറത്ത് r പ്രൈം R പ്രൈമിനേക്കാൾ വലുതാണെങ്കിൽ എല്ലാ പോയിന്റുകളും പുറത്ത് കിടക്കുന്നു എല്ലാ ഷെല്ലുകളും ഇവിടെ പരിഗണിക്കപ്പെടുന്നു അതിനാൽ R നെക്കാൾ വലിയ പ്രൈം പോട്ടെൻഷ്യൽ ആകും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരേയൊരു പദപ്രയോഗം ആദ്യത്തേതാണ് കാരണം എല്ലാ r പ്രൈമുകളും എനിക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഷെല്ലിനേക്കാൾ വലുതാണ് അതിനാൽ ഇത് 1 ഓവർ എപ്സിലോൺ 0 ആർ പ്രൈം ഇന്റഗ്രേഷൻ ആർ സ്ക്വയർ ഡി ആർ റോ എന്തായാലും 0 മുതൽ r വരെ പുറത്തുവരും ഇത് റോ R ക്യൂബ് 3 എപ്സിലോൺ 0 ആർ പ്രൈം ആകും ഞാൻ ചുവടെ 4 pi മുകളിൽ 4 pi 4 pi rho R ക്യൂബ് ബൈ 3 ചാർജ്ജ് കൊണ്ട് ഗുണിച്ചു അതിനാൽ ഇത് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 ക്യു ബൈ r പ്രൈം ആയി മാറുന്നു ഇത് പുറത്തുള്ള ചാർജിന് അറിയപ്പെടുന്ന ഫലമാണ് ഏതൊരു ഗോളീയ ചാർജിനും ഇത് ഒരു പോയിന്റ് ചാർജ് പോലെ പ്രവർത്തിക്കുന്നു rRVr0r0Rr2dr4πρR34π×30r14π0Qr ഉള്ളിലെ പോട്ടെൻഷ്യൽ എന്താണ് ഇപ്പോൾ ഉള്ളിലുള്ള പോട്ടെൻഷ്യൽ ഞാൻ കണക്കാക്കുകയാണെങ്കിൽ ഞാൻ r ൽ ഒരു ഷെൽ എടുക്കുകയാണെങ്കിൽ പോട്ടെൻഷ്യൽ V r പ്രൈം പുറത്തുള്ള എല്ലാ ഷെല്ലുകളും കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ r പ്രൈം R നേക്കാൾ കുറവായി എടുക്കുന്നു പുറത്തുള്ള എല്ലാ ഷെല്ലുകളും സ്ഥിരമായ പോട്ടെൻഷ്യൽ നൽകുന്നു അതിനാൽ ഇത് എല്ലാപോട്ടെൻഷ്യൽ കളും ആയിരിക്കും r പ്രൈം മുതൽ R വരെയുള്ള എല്ലാ ഷെല്ലുകളും എനിക്ക് സ്ഥിരമായ ഒരു പോട്ടെൻഷ്യൽ നൽകാൻ പോകുന്നു ഇത് rho d r r ഓവർ എപ്സിലോൺ 0 ന്ന് തുല്യമാണ് കൂടാതെ ഷെല്ലുകൾ ഉള്ളിൽ 0 ൽ നിന്ന് r പ്രൈം വരെ R ഒരു പോയിന്റ് ചാർജിന്റെയോ Q ഓവർ r യുടെയോപോട്ടെൻഷ്യൽ പോലെയുള്ള ഒരു പോട്ടെൻഷ്യൽ നൽകാൻ പോകുന്നു അത് r സ്ക്വയർ rho d r എപ്സിലോൺ 0 r പ്രൈമിന് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് അവസാന ഉത്തരമായിരിക്കും എനിക്ക് rho ഓവർ എപ്സിലോൺ 0 ആർ സ്ക്വയർ ബൈ 2 എന്ന് r പ്രൈം മുതൽ R വരെ പ്ലസ് റോ ഓവർ എപ്സിലോൺ 0 1 ഓവർ r പ്രൈം ക്യൂബ്ഡ് ഓവർ 3 എന്ന് 0 മുതൽ ആർ പ്രൈം വരെ എഴുതാം അതിനാൽ ഈ ഉത്തരം റോ ഓവർ എപ്സിലോൺ 0 2 എപ്സിലോൺ 0 ആർ സ്ക്വയർ മൈനസ് ആർ പ്രൈം സ്ക്വയർ പ്ലസ് റോ ഓവർ 3 എപ്സിലോൺ 0 ആർ പ്രൈം സ്ക്വയർ ഇത് ആർ സ്ക്വയർ ഓവർ 2 എപ്സിലോൺ 0 മൈനസ് റോ ആർ പ്രൈം സ്ക്വയർ ഓവർ 6 എപ്സിലോൺ 0 എഴുതാം rRVrrRrρdr00rr2ρdr0rR220 r260 rho എന്നത് Q ഓവർ 4 pi R ക്യൂബ്ഡ് 3 കൊണ്ട് ഹരിക്കുന്നു അത് മുകളിലേക്ക് പോകും എനിക്ക് ഈ ഉത്തരം എഴുതാം അതിനാൽ നമ്മൾക്ക് പോട്ടെൻഷ്യൽ V r ഉണ്ട് അത് rho R സ്ക്വാർ ഓവർ 2 എപ്സിലോൺ 0 മൈനസ് rho r പ്രൈം സ്ക്വാർ ഓവർ 6 എപ്സിലോൺ 0 ആണ് കൂടാതെ ഞാൻ ഇടുന്നത് rho 3 Q ഓവർ 4 pi എപ്സിലോൺ 0 R സ്ക്വാർ ഓവർ R ക്യൂബ്ഡ് മൈനസ് 3 Q ഓവർ 4 pi R ക്യൂബ്ഡ് r പ്രൈം സ്ക്വാർ ഇത് r പ്രൈം r പ്രൈം സ്ക്വയർ ഓവർ 6 അതിനാൽ ഇത് വരുന്നത് 3 ബൈ 2 Q ഓവർ R ഇവിടെ പിന്നെയും 2 3 ബൈ 2 Q ഓവർ R മൈനസ് ഒരു എപ്സിലോൺ 0 3 1 പകുതി Q r പ്രൈം സ്ക്വയർ ഓവർ R ക്യൂബ്ഡ് 1 ഓവർ 4 പൈ എപ്സിലോൺ 0 അതാണ് ഉത്തരം